അതിനാൽ അടുത്തതായി നമുക്ക് ജോയിൻ നെക്കുറിച്ച് പഠിക്കാം ഒരു ഡാറ്റാബേസിലെ വളരെ പ്രധാനപ്പെട്ട അൽഗോരിതങ്ങളിൽ ഒന്നാണ് ജോയിൻ നമ്മൾ വിശകലനം ചെയ്യുന്ന വ്യത്യസ്ത ജോയിൻ അൽഗോരിതങ്ങൾ ഉണ്ട് ആദ്യത്തേതിനെ നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ എന്ന് വിളിക്കുന്നു രണ്ടാമത്തേത് നെസ്റ്റഡ് ലൂപ്പ് ജോയിന്റെ ഒരു പതിപ്പാണ് അതിനെ ബ്ലോക്ക് എന്ന് വിളിക്കുന്നു അതിനാൽ ഇതിനെ എൻഎൽജെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാണ് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ മൂന്നാമത്തേത് ഇൻഡെക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ നാലാമത്തേത് ഒരു മെർജ് ജോയിൻ ആണ് അഞ്ചാമത്തേത് ഒരു ഹാഷ് ജോയിൻ ആണ് അതിനാൽ രണ്ടാമത്തേതും മൂന്നാമത്തേതും ആദ്യത്തേതിന്റെ വ്യതിയാനങ്ങളാണ് അതിനാൽ നമുക്ക് ആദ്യത്തെ അൽഗോരിതം ആയ നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ മുതൽ ആരംഭിക്കാം ഇപ്പോൾ നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ മനസ്സിലാക്കാനും പ്രയോഗിക്കാനും ഏറ്റവും ലളിതമായ അൽഗോരിതം ആണ് ഒരു നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ചെയ്യുന്നത് അത് എടുക്കുന്നു പിക് അപ് ചെയ്യുന്നു എന്നതാണ് അതിനാൽ ഒരു ജോയിൻ എന്നത് r s എന്ന റിലേഷനുകൾ തമ്മിലുള്ളതാണെന്നു ഓർക്കുക അതിനാൽ നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ പിക് അപ് ചെയ്യുന്നത് എന്താണെന്നാൽ അത് r ൽ നിന്ന് ട്യൂപ്പിൾ പിക്ക് അപ്പ് ചെയ്യുന്നു എന്നിട്ട് t2 ൽ നിന്ന് മറ്റൊരു ട്യൂപ്പിൾ പിക്ക് അപ്പ് ചെയ്യുന്നു ഒരു ജോയിൻ നടത്തുന്നു അത് കണ്ടിഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അതാണ് ഔട്ട്പുട്ട് അല്ലാത്തപക്ഷം അത് അല്ല അതിനാൽ ഇത് മനസ്സിലാക്കാനും പ്രയോഗിക്കാനും വളരെ ലളിതമായ ഒരു അൽഗോരിതം ആണ് ലീനിയർ സെർച്ച് പോലെ ജോയിനിലെ ഏത് തരത്തിലുള്ള പ്രെഡിക്കേറ്റിനും ഇത് ബാധകമാണ് ജോയിൻ പ്രെഡിക്കേറ്റ് എന്താണെന്നത് പ്രശ്നമല്ല അതിനാൽ അത് ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് അതിനാൽ ഒരു ഔട്ടർ റിലേഷൻ ഉണ്ട് അതിനാൽ അവിടെ ഒരു ഔട്ടർ റിലേഷൻ ഇന്നർ റിലേഷൻ എന്ന ആശയം ഉണ്ട് അതിനാൽ ഇത് ഔട്ടർ റിലേഷൻ ആണെന്ന് കരുതുക ഇത് ഒരു ഇന്നർ റിലേഷൻ ആണെന്ന് കരുതുക കാരണം ഇത് ഒരു നെസ്റ്റഡ് ലൂപ്പ് ആണ് അതിനാൽ ഇതാണ് ഔട്ടർ ലൂപ്പ് ഇതാണ് ഇന്നർ ലൂപ്പ് തുടർന്ന് ഇത് ആന്തരിക ലൂപ്പാണ് അതിനാൽ r ഉം s ഉം ഇപ്പോൾ രണ്ട് റിലേഷനുകളുണ്ടെന്ന് കരുതുക റിലേഷൻ i bi ബ്ലോക്കുകളിൽ ni റെക്കോർഡ്സ് ഉൾകൊള്ളുന്നു നല്ലത് അതിനാൽ റിലേഷൻ i ൽ പൂർണ്ണമായും ni റെക്കോർഡുകൾ ഉൾകൊള്ളുന്ന bi ബ്ലോക്കുകൾ ഉണ്ട് കൂടാതെ അനുമാനിക്കുക അഥവാ ബഫറിംഗ് ഒന്നും നടക്കുന്നില്ല എന്നത് ഒരു അനുമാനമാണ് അതിനാൽ പ്രധാനമായും രണ്ട് ബ്ലോക്കുകൾ മാത്രമേ മെമ്മറിയിൽ ഉൾക്കൊള്ളുന്നുള്ളൂ എന്ന് അനുമാനിക്കുക എന്നാൽ തീർച്ചയായും മറ്റ് താൽക്കാലിക കമ്പ്യൂറ്റേഷനുകൾ നടത്താൻ മെമ്മറിയിൽ മതിയായ ഇടമുണ്ട് അതിനാൽ രണ്ട് ബ്ലോക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇനിപ്പറയുന്നവയാണ് ചെയ്യുന്നത് ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യും ബ്ലോക്ക് ട്രാൻസ്ഫറുകൾ ഇനിപ്പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത് ഓരോ തവണയും റെക്കോർഡ് tr ൽ അതിനാൽ ഇതാണ് റെക്കോർഡ് tr എന്നും ഇത് ts ആണെന്നും കരുതുക അതിനാൽ ഓരോ തവണയും r ൽ നിന്ന് ഒരു റെക്കോർഡ് tr റീഡ് ചെയ്യുമ്പോൾ s ൽ നിന്നുള്ള എല്ലാ റെക്കോർഡുകളും കൊണ്ടുവരുന്നു അതിനാൽ ഓരോ തവണ tr ചെയ്യുമ്പോഴും bs ബ്ലോക്ക് ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ട് എന്ന് അത് റെക്കോർഡ് ചെയ്യുന്നു കാരണം s ൽ നിന്നുള്ള എല്ലാ ബ്ലോക്കുകളും റീഡ് ചെയ്യപ്പെടുന്നു ഇപ്പോൾ tr നു എത്ര ട്രാൻസ്ഫറുകൾ ചെയ്തു br ട്രാൻസ്ഫറുകൾ ചെയ്തു കാരണം റെക്കോർഡുകൾ ഓരോന്നായി റീഡ് ചെയ്യപ്പെടുന്നു അതിനാൽ മൊത്തം ട്രാൻസ്ഫറുകളുടെ എണ്ണം ഇനിപ്പറയുന്നവയാണ് അത് br ആണ് കൂടാതെ ഇത് nr തവണയാണ് ചെയ്യുന്നത് ഇത് എത്ര തവണ ചെയ്യുന്നു ഇത് nr തവണയാണ് ചെയ്യുന്നത് അതിനാൽ ഇത് ആണ് അതാണ് ബ്ലോക്ക് ട്രാൻസ്ഫറുകളുടെ ആകെ എണ്ണം അതിനാൽ സീക്കുകളുടെ ആകെ എണ്ണം എന്താണ് മൊത്തം സീക്കുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യും വീണ്ടും അതേ തത്ത്വം പ്രയോഗിക്കുന്നു അതിനാൽ സീക്കുകളുടെ എണ്ണം നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യും ഇതുവരെ റെക്കോർഡ് tr റീഡ് ചെയ്യുമ്പോഴെല്ലാം s ന്റെ മുഴുവൻ റിലേഷനും റീഡ് ചെയ്യാൻ ഒരു സീക് ചെയ്യപ്പെടുന്നു പക്ഷേ അത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ r ന്റെ അടുത്ത റെക്കോർഡ് റീഡ് ചെയ്യാനാകുന്ന ഒരു സീക് വീണ്ടും ചെയ്യപ്പെടുന്നു ഇത് nr തവണ ചെയ്യപ്പെടുന്നു അതിനാൽ മൊത്തം സീക്കുകളുടെ ആകെ എണ്ണം ലളിതമായി ആണ് അതിനാൽ ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ നമുക്ക് ഇപ്പോൾ വിശകലനത്തിലേക്ക് പോകാം അവിടെ ഒരു ഇന്നർ റിലേഷനും ഒരു ഔട്ടർ റിലേഷനും ഉണ്ട് അവിടെ ഒരു ഇന്നർ ലൂപ്പും ഒരു ഔട്ടർ ലൂപ്പും ഉണ്ട് ചോദ്യം എന്തണെന്നാൽ ഏതായിരിക്കണം ഇന്നർ ലൂപ്പ് ഏതായിരിക്കണം ഔട്ടർ ലൂപ്പ് എന്നതാണ് അതിനാൽ നമ്മൾ ഈ വിശകലനത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആണ് എന്നാൽ ഇതിനു വിപരീതമായി ഇത് ആണ് അതിനാൽ നമ്മൾ ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും മാറ്റുകയാണെങ്കിൽ ഇതാണ് കോസ്റ്റ് അതിനാൽ ഏതാണ് കൂടുതൽ മെച്ചപ്പെട്ട കോസ്റ്റ് കോസ്റ്റ് സംബന്ധിച്ചിടത്തോളം ഔട്ടർ റിലേഷൻ ചെറുതാവുന്നതാണ് നല്ലത് അതിനാൽ ഔട്ടർ ലൂപ്പ് ഔട്ടർ റിലേഷൻ ചെറുതായിരിക്കണം അത് കുറഞ്ഞ കോസ്റ്റ് സൃഷ്ടിക്കുന്നു അതിനാൽ ഇതാണ് രസകരമായ ചോദ്യം അതായത് ഔട്ടർ റിലേഷൻ ഏതായിരിക്കണം ഔട്ടർ റിലേഷൻ എല്ലായ്പ്പോഴും ചെറുതായിരിക്കണം അതിനാൽ നമുക്ക് അടുത്ത അൽഗോരിതത്തിലേക്കു പോകാം അത് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ആണ് ഇപ്പോൾ നാമെല്ലാവരും ചെയ്യേണ്ട ഒരു വിശകലനം എന്തെന്നാൽ നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ വളരെ മന്ദഗതിയിലാണ് അത് വളരെ നഷ്ടം വരുത്തിവെക്കുന്നതുമാണ് എന്തുകൊണ്ടാണ് അത് നഷ്ടം വരുത്തുന്നതാകുന്നത് കാരണം r ൽ നിന്ന് ഒരു ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോഴും അത് ഒരു ട്യൂപ്പിൾ മാത്രം പ്രോസസ്സ് ചെയ്യുകയും തുടർന്ന് ബാക്കിയുള്ള ട്യൂപ്പിളുകൾ അനാവശ്യമായി വലിച്ചെറിയുകയും അടുത്ത തവണ അതേ ട്യൂപ്പിളിനായി s വീണ്ടും റീഡ് ചെയ്യുകയും ചെയ്യുന്നു അതിനാൽ അത് അർത്ഥവത്തല്ല കാരണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഡിസ്ക് സീക്കുകളുടെ എണ്ണം വളരെ പ്രധാനമാണ് ഒരിക്കൽ ഒരു ഡിസ്ക് ബ്ലോക്ക് റീഡ് ചെയ്തുകഴിഞ്ഞാൽ ആ ബ്ലോക്കിലെ എല്ലാ ട്യൂപ്പിളുകളും ഉപയോഗിക്കണം അതിനാൽ അതാണ് കൃത്യമായി ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ചെയ്യുന്നത് അതിനാൽ ഇത് ചെയ്യുന്നത് ഇനിപ്പറയുന്ന അൽഗോരിതം ആണ് ഇതാണ് അടിസ്ഥാനപരമായി നെസ്റ്റഡ് ലൂപ്പ് ജോയിന്റെ ബ്ലോക്ക് വേർഷൻ അതിനാൽ ഇത് അത് ചെയ്യുന്നില്ല അഥവാ ട്യൂപ്പിളുകൾ ഓരോന്നായി പ്രോസസ്സ് ചെയ്യുന്നില്ല ഓരോ ബ്ലോക്കിനും ഇത് പ്രോസസ്സ് ചെയ്യുന്നു അതിനാൽ ഇത് r ൽ നിന്നുള്ള ഒരു ബ്ലോക്ക് റീഡ് ചെയ്യുന്നു ഇതാണ് റീഡ് ചെയ്യപ്പെടുന്ന ബ്ലോക്ക് r എന്ന് നമുക്ക് പറയാം തുടർന്ന് അത് s ൽ നിന്നുള്ള ഒരു ബ്ലോക്ക് റീഡ് ചെയ്യുന്നു തുടർന്ന് ഈ രണ്ട് ബ്ലോക്കുകളുടെ ഭാഗമായ എല്ലാ ട്യൂപ്പിളുകളും കമ്പ്യൂട് ചെയ്യുകയും അവിടെയുള്ള എല്ലാ ജോയിനുകളും കമ്പ്യൂട് ചെയ്യുകയും അത് ഔട്ട്പുട്ട് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ആ ബ്ലോക്കിന്റെ ഭാഗം കഴിഞ്ഞു തുടർന്ന് അത് s ൽ നിന്ന് അടുത്ത ബ്ലോക്ക് റീഡ് ചെയ്യുന്നു അങ്ങനെ തുടരുന്നു അതാണ് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ചെയ്യുന്നത് അതിനാൽ ഇത് അടിസ്ഥാനപരമായി r ലെ ഓരോ ബ്ലോക്കിനും s ലെ ഓരോ ബ്ലോക്കിനും r ലെ ഓരോ ട്യൂപ്പിളിനും പിന്നെ s ലെ ഓരോ ട്യൂപ്പിളിനും അത് ജോയിൻ പ്രെഡിക്കേറ്റ് ചെയ്യുന്നു തുടർന്ന് അത് r എന്ന ബ്ലോക്ക് പരിഗണിക്കുന്നില്ല അതിനാൽ ഇത് പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞു ഇത് ഏത് തരത്തിലുള്ള ജോയിനിനും ബാധകമാണ് കൂടാതെ ഇത് ബ്ലോക്കിനായി ഒപ്റ്റിമൈസ് ചെയ്ത നെസ്റ്റഡ് ലൂപ്പ് ജോയിന്റെ ഒരു പതിപ്പ് മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അൽഗോരിതത്തിനു വരുന്ന കോസ്റ്റ് എന്താണ് അതിനാൽ ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം അത് ചെയ്യുന്ന ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം വിശകലനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഓരോ തവണയും ഒരു lr എന്ന ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോൾ അതിനാൽ r ൽ നിന്നുള്ള ഒരു lr എന്ന ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോൾ അത് s ൽ നിന്നുള്ള എല്ലാ ബ്ലോക്കുകളും ട്രാൻസ്ഫർ ചെയ്യുന്നു അതിനാൽ ഇതിന് bs ട്രാൻസ്ഫറുകൾ ആവശ്യമാണ് കൂടാതെ ഈ lr എത്ര തവണ ചെയ്യുന്നു ഇത് ചെയ്യുന്നത് br തവണ മാത്രമാണ് അവസാന ഘട്ടത്തിലെന്നപോലെ nr തവണയല്ല ഇത് ഓരോരോ ബ്ലോക്കുകളായി ചെയ്യുന്നു അതിനാൽ സീക്സ് ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ മൊത്തം എണ്ണം അതിനാൽ അത് ചെയ്യപ്പെടുന്ന മൊത്തം ബ്ലോക്ക് ട്രാൻസ്ഫറുകളുടെ എണ്ണം ലളിതമായി ആണ് കാരണം ഈ bs ഓരോ ബ്ലോക്കിനും വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് തുടർന്ന് ചെയ്ത മൊത്തം ബ്ലോക്ക് ട്രാൻസ്ഫെറുകളുടെ എണ്ണം br ആണ് അതിനാൽ ഇത് ലളിതമായി ആണ് ഇനിപ്പറയുന്ന രീതിയിൽ സീക്കുകളെ അതേ രീതിയിൽ വിശകലനം ചെയ്താൽ ഓരോ തവണയും ഒരു lr എന്ന ബ്ലോക്ക് റീഡ് ചെയ്യപ്പെടുമ്പോൾ രണ്ട് സീക്കുകൾ നടക്കുന്നുവെന്ന് നമുക്ക് കാണാനാകും അതിനാൽ ഓരോ തവണയും ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോൾ s നു വേണ്ടി ചെയ്യുന്ന ഒരു സീക് ഉണ്ട് കൂടാതെ ഇത് r ലെ എല്ലാ ബ്ലോക്കുകൾക്കും വേണ്ടിയാണ് ചെയ്യുന്നത് അതിനാൽ മൊത്തം സീക്കുകകളുടെ എണ്ണം അടിസ്ഥാനപരമായി brbr ആണ് അതിനാൽ ഇത് 2br മാത്രമാണ് അതിനാൽ ഇത് കോസ്റ്റിനെ സംബന്ധിച്ച കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു അൽഗോരിതം ആണ് ഒരിക്കൽ കൂടി ഔട്ടർ റിലേഷൻ എന്തായിരിക്കണം ഔട്ടർ റിലേഷൻ അത് ചെറുതായിരിക്കണോ അല്ലെങ്കിൽ വലുതായിരിക്കണോ വീണ്ടും ഔട്ടർ റിലേഷൻ ചെറുതായിരിക്കണം അതിനാൽ ചെറിയ റിലേഷൻ ഔട്ടർ ആയിരിക്കണം ഇത് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ പോലെയാണ് അതിനാൽ ഇതാണ് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ഈ ഘട്ടത്തിലെ അടുത്ത അൽഗോരിതം ഇൻഡക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ആണ് അതിനാൽ ഇത് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ന്റെ ഇൻഡെക്സ് ചെയ്ത പതിപ്പ് മാത്രമാണ് ബ്ലോക്ക് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ എന്നതുകൊണ്ട് നമ്മൾ എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ നമ്മൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ r ൽ നിന്നുള്ള ഓരോ lr എന്ന ബ്ലോക്കിനും കൂടാതെ lr എന്ന ബ്ലോക്കിലെ ഓരോ tr എന്ന റെക്കോർഡിനും ഒരു ഇൻഡക്സ് ഉണ്ട് അതിനാൽ ഒരു ഇൻഡെക്സ് നിർമ്മിച്ചിരിക്കുന്നു s എന്ന മറ്റു റിലേഷന് മേൽ ഒരു ഇൻഡെക്സ് ഉണ്ട് അതാണ് ഇന്നർ റിലേഷൻ അതിനാൽ ഇതാണ് ഇന്നർ റിലേഷൻ അവിടെ s നു മേൽ നിർമ്മിച്ച ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കണം അനുബന്ധമായ ഈ ഇൻഡെക്സ് ഉപയോഗിച്ച് s ൽ നിന്ന് tr മായി ജോയിൻ ചെയ്യാനാവുന്ന അനുബന്ധമായ ട്യൂപ്പിളുകൾ കണ്ടെത്തുന്നു അതിനാൽ ഈ ഇൻഡെക്സ് ഉപയോഗിച്ച് tr മായി ജോയിൻ ചെയ്യാനാവുന്ന ട്യൂപ്പിളുകൾ കണ്ടെത്തുന്നു അതിനാൽ അതാണ് അൽഗോരിതത്തിലെ ഇൻഡക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ഇൻഡക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ന്റെ കോസ്റ്റ് വിശകലനം ചെയ്യുമ്പോൾ അൽഗോരിതം എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിനാൽ രണ്ട് ബ്ലോക്കുകൾ മാത്രമേ മെമ്മറിയിൽ ഫിറ്റ് ആവുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടി അനുമാനിക്കാം കൂടാതെ റിലേഷൻ i ടെ ഇന്ഡക്സിന്റെ വലുപ്പം 12 ബ്ലോക്കുകളാണ് എന്ന് നമുക്ക് പറയാം അതിനാൽ ഇതാണ് ഒരു പാരാമീറ്റർ ഇപ്പോൾ കോസ്റ്റ് cs സീക്സ് ആണ് കൂടാതെ ട്രാൻസ്ഫെറുകൾ ഒരു ഇന്ഡക്സിലെ സെലെക്ഷനുള്ള r ലെ ഓരോ റെക്കോർഡിനും cs സീക്സ് ഉം cs ട്രാൻസ്ഫെറുകളും ആണ് ഇത് r ലെ ഓരോ റെക്കോർഡ് tr നു ഉള്ളതാണ് ഇതാണ് കോസ്റ്റ് അഥവാ cs സീക്സ് ഉം cs ട്രാൻസ്ഫെറുകളും കാരണം നമുക്ക് ഈ ci ബ്ലോക്കുകളെല്ലാം മറികടക്കേണ്ടതുണ്ട് പിന്നെ r ലെ ബ്ലോക്കുകൾക്കായി br സീക്കുകളും br ട്രാൻസ്ഫറുകളും ഉണ്ട് അതിനാൽ അടിസ്ഥാനപരമായി മൊത്തം കോസ്റ്റ് ആണ് സീക്കുകളുടെ എണ്ണവും അതേ എണ്ണം ട്രാൻസ്ഫറുകളും അതിനാൽ അതിനാൽ അതാണ് ഇൻഡക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ ന്റെ കോസ്റ്റ് ഇപ്പോൾ രണ്ട് റിലേഷനുകൾക്കും ഇൻഡക്സ് ലഭ്യമാണെങ്കിൽ ഈ ചെറിയ റിലേഷൻ ഔട്ടർ റിലേഷൻ ആയിരിക്കണം അതിനാൽ r എന്നത് s നേക്കാൾ ചെറുതാണെങ്കിൽ r എന്നത് ഔട്ടർ റിലേഷൻ ആയിരിക്കണം കാരണം കോസ്റ്റ് ആണ് അതിനാൽ അത്രയുമാണ് ഇൻഡക്സ്ഡ് നെസ്റ്റഡ് ലൂപ്പ് ജോയിൻ നെക്കുറിച്ച് അടുത്തതായി നമ്മൾ മെർജ് ജോയിൻ അല്ലെങ്കിൽ സോർട്ട് മെർജ് ജോയിൻ കവർ ചെയ്യും ഇതിനെ സോർട്ട് മെർജ് ജോയിൻ എന്നും വിളിക്കുന്നു അതിനാൽ ഈ അൽഗോരിതം എന്താണ് ചെയ്യുന്നത് എന്നാൽ ആദ്യം ഇത് ബാധകമാകുന്നത് ജോയിൻ കണ്ടീഷൻ ഇക്വാലിറ്റിയായിരിക്കുമ്പോൾ മാത്രമാണ് അതിനാൽ ഇത് ഒരു ഇക്വാലിറ്റി ജോയിൻ ആയിരിക്കുമ്പോൾ മാത്രം ഇത് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അല്ലാത്തപക്ഷം ഇത് ബാധകമാകില്ല റിലേഷൻസ് സോർട് ചെയ്തിട്ടുണ്ടെന്നും അനുമാനിക്കപ്പെടുന്നു അതിനാൽ ഇല്ലെങ്കിൽ ഈ സോർട്ടിംഗ് കോസ്റ്റ് നൽകണം അതിനാൽ ഇത് ആദ്യം സോർട് ചെയ്യണം തുടർന്ന് മെർജ് ജോയിൻ അൽഗോരിതം അപ്ലൈ ചെയ്യേണ്ടതുണ്ട് എന്താണ് അത് ചെയ്യുന്നത് എന്നാൽ അവിടെ ഈ രണ്ടു റിലേഷൻസ് ഉണ്ട് r സോർട് ചെയ്യപ്പെട്ടിരിക്കുന്നു കൂടാതെ s സോർട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാം മെർജ് പ്രോസിജറിലെ മെർജ് ജോയിൻ പോലെ സോർട്ടിങ് നടക്കുന്നു ഒരു സമയം ഒരു ബ്ലോക്ക് എന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നിട്ട് അത് ജോയിൻ ചെയ്യാനാകുമോ എന്ന് നോക്കുന്നു അതെ എങ്കിൽ അവ ജോയിൻ ചെയ്യുന്നു ഇല്ലെങ്കിൽ അവ അടുത്തതിലേക്ക് പോകുന്നു അങ്ങനെ തുടരുന്നു അത്രമാത്രം അതിനാൽ ഇത് അടിസ്ഥാനപരമായി നമ്മൾ ചെയ്യുന്ന മെർജ് സോർട്ടിങ് മാത്രമാണ് അതിനാൽ ഈ അൽഗോരിത്തിന്റെ കോസ്റ്റ് എത്രയാണ് മെർജ് സോർട് അൽഗോരിതത്തിന്റെ കോസ്റ്റ് താഴെ പറയുന്ന രീതിയിൽ വിശകലനം ചെയ്യാൻ കഴിയും അതായത് ഓരോ റെക്കോർഡും ഒരു തവണ മാത്രമേ റീഡ് ചെയ്യപ്പെടുന്നുള്ളു കാരണം ആൽഗോരിതം രണ്ട് റിലേഷനുകൾക്കിടയിൽ സോർട്ടഡ് രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ അത് നല്ലതാണ് അതിനാൽ ഓരോ ബ്ലോക്കും ഒരു തവണ മാത്രമേ റീഡ് ചെയ്യപ്പെടുന്നുള്ളു അതേ കാര്യം തന്നെ എന്നിരുന്നാലും r നും s നും ഇടയിലുള്ള ബ്ലോക്കുകൾ ഈ ബ്ലോക്കുകൾ r ലും ആകാം s ലും ആകാം അവ ഏത് ഇന്റർലീവ് രീതിയിലും ഉപയോഗിക്കാം അതിനാൽ അടിസ്ഥാനപരമായി മൊത്തം ബ്ലോക്കുകളുടെ എണ്ണം പോലെ അത്രയുംതന്നെ സീക്കുകളും ഉണ്ടായേക്കാം അതിനാൽ മൊത്തം ബ്ലോക്കുകളുടെ എണ്ണം ആണ് അതിനാൽ അത്രയുംതന്നെ സീക്കുകൾ ആവശ്യമായി വന്നേക്കാം അതുപോലെ അത്രയുംതന്നെ ട്രാൻസ്ഫെറുകളും ആവശ്യമായി വന്നേക്കാം അതിനാൽ സീക്കുകളും ട്രാൻസ്ഫെറുകളും ആവശ്യമായി വന്നേക്കാം കാരണം ബ്ലോക്കുകൾ ഇന്റർലീവ് ചെയ്യാൻ കഴിയും r ന്റെ ഓരോ ബ്ലോക്ക് റീഡ് ചെയ്യുമ്പോഴെല്ലാം s ന്റെ ഒരു ബ്ലോക്ക് റീഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ അത് സംഭവിക്കാം അതിനാൽ അതാണ് ഈ മെർജ് ജോയിൻ ന്റെ കോസ്റ്റ് ഇപ്പോൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം മെമ്മറിയിൽ bb ബ്ലോക്കുകൾക്ക് ഇടമുണ്ടെന്ന് കരുതുക അതിനാൽ bb ബ്ലോക്കുകൾ bb എണ്ണം ബ്ലോക്കുകൾ ഒരേസമയം മെമ്മറിയിൽ സൂക്ഷിക്കാം അതിനാൽ അത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ ഓരോ റിലേഷനിൽ നിന്നും രണ്ട് ബ്ലോക്കുകൾക്ക് പകരം ഓരോ റിലേഷനിൽ നിന്നും bb ബ്ലോക്കുകൾ മെമ്മറിയിൽ സൂക്ഷിക്കാനാകും എന്നതാണ് അതിനാൽ ഒരു സമയം ഒരു ബ്ലോക്ക് റീഡ് ചെയ്യുന്നതിന് പകരം എന്താണ് ചെയ്യാൻ കഴിയുക എന്നാൽ bb ബ്ലോക്കുകൾ ഓരോ തവണയും റീഡ് ചെയ്യാൻ കഴിയും എന്നതാണ് അതിനാൽ അതിന് ആവശ്യമായ പാസുകളുടെ എണ്ണം ആണ് തീർച്ചയായും r നും s നും ഇതാണ് സീലിംഗ് ഫംഗ്ഷൻ അതിനാൽ bb ബ്ലോക്കുകൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഇത്രയും എണ്ണം സീക്കുകളും ട്രാൻസ്ഫെറുകളും ആവശ്യമാണ് അതിനാൽ ഇത് നല്ലതാണ് റിലേഷൻസ് സോർട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ സെക്കന്ററി ഇൻഡക്സ് ഉപയോഗിക്കാം അല്ലെങ്കിൽ റിലേഷൻസ് സോർട് ചെയ്യേണ്ടതായി വന്നേക്കാം പിന്നെ ഹൈബ്രിഡ് മെർജ് ജോയിൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു അൽഗോരിതം ഉണ്ട് അവിടെ അത് ചെയ്യുന്നത് എന്താണെന്നാൽ അവിടെ റിലേഷനുകളിൽ ഒന്ന് സോർട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാൽ മറ്റേ റിലേഷന് അതിൽ നിർമ്മിച്ചതായിട്ടുള്ള ഒരു ഇൻഡക്സ് ഉണ്ട് അതിനർത്ഥം ബി ട്രീ ഇൻഡക്സ് B tree Index ആണ് അതിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അതിനാൽ എന്താണ് ചെയ്യുന്നത് എന്നാൽ ഈ സോർട്ടഡ് റിലേഷൻ റെക്കോർഡുകൾ ബ്ലോക്കുകൾ ബ്ലോക്കുകളിലെ റെക്കോർഡുകൾ എല്ലാം ഒന്നൊന്നായി റീഡ് ചെയ്യുകയും തുടർന്ന് വേറെ റിലേഷനിലെ മാച്ചിങ് ട്യൂപ്പിളുകൾ വീണ്ടെടുക്കാൻ ഇന്ഡക്സിലേക്കു ക്വയറി നടത്തുകയും ചെയ്യുന്നു അതിനാൽ അത് ചെയ്യാൻ കഴിയും ഈ അൽഗോരിതം പിന്നെ ഹൈബ്രിഡ് മെർജ് ജോയിൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതിനെ ഒരു ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നു കാരണം അവയെല്ലാം ശേഷം ഈ സോർട് ചെയ്തിട്ടില്ല ഒന്ന് സോർട് ചെയ്തിരിക്കുന്നു മറ്റുള്ളത് ഇൻഡക്സ് ചെയ്തിരിക്കുന്നു അതിനാലാണ് ഇതിനെ ഹൈബ്രിഡ് മെർജ് ജോയിൻ എന്ന് വിളിക്കുന്നത്